അപ്പോൾ ഈ പ്രോട്ടോകോളിനെ ടൈം സ്റ്റാമ്പ് ഓർഡറിങ്ങ് അല്ലെങ്കിൽ റ്റി ഒ പ്രോട്ടോകോൾ എന്നു പറയുന്നു ഈ ടൈം സ്റ്റാമ്പ് ഓർഡറിങ്ങ് പ്രോട്ടോകോൾ ലോക്ക് ഫ്രീ ആണ് അത് ഡേറ്റാ ഐറ്റത്തിൽ ഒരു തരത്തിലുള്ള ലോക്കും ഉപയോഗിക്കുന്നില്ല ആദ്യം എന്താണ് ഈ ടൈംസ്റ്റാമ്പ് എന്നു നോക്കാം ഓരോ ട്രാൻസാക്ഷനും ഒരു പ്രത്യേക ടൈംസ്റ്റാമ്പ് അത് തുടങ്ങുമ്പോൾ കൊടുക്കുന്നു അതിനെ നമ്മൾ എന്നു പറയുന്നു അതാണ് T യുടെ ടൈം സ്റ്റാമ്പ് അപ്പോൾ ടൈം സ്റ്റാമ്പ് എന്നത് ഒരു ലോജിക്കൽ കൌണ്ടർ ആണ് ലോജിക്കൽ ടൈം ആണ് അതിന് യഥാർത്ഥ ഘടികാര സമയം അല്ലെങ്കിൽ ഏതെങ്കിലും ലോജിക്കൽ കൌണ്ടർ ആകാൻ സാധിക്കും ക്രമം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ക്രമത്തിൽ ആണ് വരിക അതുപോലെതന്നെ അത് ലോജിക്കൽ ക്ലോക്ക് ആണ് ഒരു ഓർഡർഡ് ലോജിക്കൽ ക്ലോക്ക് ആണ് ഓരോ ക്ഷണവും ഒരു ടൈം സ്റ്റാമ്പ് അത് തരും അടുത്ത ക്ഷണത്തിൽ രണ്ടെണ്ണം തരും അങ്ങനെ അങ്ങനെ ക്രമത്തിൽ ആയിരിക്കുന്നത് വരെ 2 ടൈം സ്റ്റാമ്പുകളുടെ ഇടയിൽ ആദ്യത്തേത് രണ്ടാമത്തെതിനേക്കാൾ ചെറുതാണോ അതോ തുല്യമാണോ എന്നുള്ളത് ഇവിടെ അറിയാൻ സാധിക്കും അതിനുവേണ്ടിയാണ് ഇതിനെ ക്രമത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ട്രാൻസാക്ഷൻ ടൈം സ്റ്റാമ്പ് ട്രാൻസാക്ഷൻ തുടങ്ങുമ്പോൾ അതിന് ഒരു ടൈം സ്റ്റാമ്പ് കൊടുക്കപ്പെടും ഓരോ ഡേറ്റ ഐറ്റം ആയ x ന്റെ ട്രാൻസാക്ഷനും തുടങ്ങുമ്പോൾ 2 ടൈം ടാബ് അതിന് കൊടുക്കും ആദ്യത്തേത് റൈറ്റ് ടൈംസ്റ്റാമ്പ് ആണ് അതാണ് x നെ എഴുതുന്ന ട്രാൻസാക്ഷന്റെ ഏറ്റവും വലിയ ടൈം സ്റ്റാമ്പ് അപ്പോൾ x നെ വിജയകരമായി എഴുതി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ട്രാൻസാക്ഷൻ 1 x നെ എഴുതി ട്രാൻസാക്ഷൻ 2 ഇത് രണ്ടിനെയും എഴുതി അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ടൈം സ്റ്റാമ്പ് അപ്പോൾ ട്രാൻസാക്ഷൻ ഒന്ന് ട്രാൻസാക്ഷൻ രണ്ടിനേക്കാളും മുൻപേ തുടങ്ങുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ ഒന്നിന്റെ ടൈം സ്റ്റാമ്പ് രണ്ടിനെക്കാൾ ചെറുതായിരിക്കും കാരണം അവ ക്രമപ്പെടുത്തിയാണ് എഴുതിയിരിക്കുന്നത് ഇനി x ൽ എഴുതിയതു പോലെ വരുകയാണെങ്കിൽ ഇതിന് വലിയ ടൈം സ്റ്റാമ്പ് കിട്ടും ഇതാണ് വിജയകരമായി x ൽ എഴുതിയിരിക്കുന്ന ഏതൊരു ട്രാൻസാക്ഷനും വരുന്ന ഏറ്റവും വലിയ ടൈംസ്റ്റാമ്പ് അതുപോലെ തന്നെ റീഡ് ടൈംസ്റ്റാമ്പും ഉണ്ട് അതിന്റെ വിവരണം എന്തെന്നാൽ അത് ട്രാൻസാക്ഷൻ T യുടെ ഏറ്റവും വലിയ ടൈംസ്റ്റാമ്പ് ആണ് അത് x നെ റീഡു ചെയ്യുന്നു അപ്പോൾ ഒന്നും കൂടെ ഇതാണ് x ൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ ടൈംസ്റ്റാമ്പ് അപ്പോൾ ടൈം സ്റ്റാമ്പ് ഓർടറിങ്ങ് പ്രോട്ടോകോൾ ഈ ഒരു ടൈം സ്റ്റാമ്പിനെ ആണ് ഉപയോഗിക്കുന്നത് അതിനെ കുറിച്ച് ഇനി നമുക്ക് കാണാം അത് ഇങ്ങനെയാണ് കാണിക്കുവാൻ സാധിക്കുക അതിലൂടെ ടൈംസ്റ്റാബ്കൾ ഉപയോഗിക്കുന്ന പ്രോട്ടോകോളിൽ ഡെഡ് ലോക്ക് വരുന്നില്ല കാരണം അവിടെ എപ്പോഴും തുടങ്ങിയ ട്രാൻസാക്ഷനുകൾക്കിടയിൽ ഒരു സ്ട്രീക്റ്റ് ഓർഡർ ഉണ്ട് അതുകാരണം ട്രാൻസാക്ഷൻ ഒന്ന് ട്രാൻസാക്ഷൻ രണ്ടിനെക്കാൾ മുൻപേ തുടങ്ങുകയാണെങ്കിൽ അതിന് ചെറിയ ടൈംസ്റ്റാമ്പ് ആയിരിക്കും രണ്ടിനേക്കാളും അപ്പോൾ ഇവിടെ ഡെഡ് ലോക്ക് ഉണ്ടാകുന്നില്ല കാരണം ഇവിടെ ട്രാൻസാക്ഷനുവേണ്ടി ഒരു മുൻഗണനക്രമം ടൈം സ്റ്റാമ്പ് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ടൈംസ്റ്റാബ് ഉപയോഗിക്കുകയാണെങ്കിൽ ടൈം സ്റ്റാമ്പ് ഓർട്ടറിങ്ങ് പ്രോട്ടോകോളിൽ അല്ലെങ്കിൽ ഏതൊരു പ്രോട്ടോകോളിലും ഡെഡ് ലോക്ക് ഉണ്ടാകുന്നില്ല ഇത് പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആണ് നമുക്ക് ഇനി യഥാർത്ഥ പ്രോട്ടോകോളിലേക്ക് വരാം ഈ ടൈംസ്റ്റാമ്പ് കാര്യങ്ങൾ ക്രമമായി വെക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ഫിലോസഫി എന്തെന്നാൽ സംഘർഷം ഉണ്ടാക്കുന്ന ഓപറേഷനുകളെ ടൈംസ്റ്റാമ്പിന്റെ ക്രമത്തിൽ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് രണ്ട് ഓപ്പറേഷനുകൾ ഉണ്ട് എന്ന് കരുതുക അങ്ങനെ ആണെങ്കിൽ i1 ന് ചെറിയ ടൈംസ്റ്റാമ്പ് ആയിരിക്കും അതിനെ ഒരു പ്രത്യേക ക്രമത്തിൽ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക ഇത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇതാണ് ടൈംസ്റ്റാമ്പ് ഓർടറിങ്ങിന്റെ ഫിലോസഫി അപ്പോൾ ട്രാൻസാക്ഷൻ റീഡിന് വേണ്ടി ഇവിടെ അപേക്ഷിക്കുകയാണ് ഇത് ഒരു അപേക്ഷയാണ് കാരണം ഇത് വിജയകരമായി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അല്ലേ അപ്പോൾ x നോടുള്ള റീഡിനു വേണ്ടിയുള്ള അപേക്ഷയാണ് ഇത് ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ ആണ് നടക്കുക ട്രാൻസാക്ഷൻ T യുടെ ടൈംസ്റ്റാമ്പ് x ന്റെ റൈറ്റ് ടൈംസ്റ്റാമ്പിനേക്കാളും ചെറുതാണെന്ന് കരുതുക x ന്റെ റൈറ്റ് ടൈംസ്റ്റാമ്പ് പറയുന്നു അവിടെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെന്ന് x ന്റെ റൈറ്റ് ടൈംസ്റ്റാമ്പ് എന്താണ് അത് ട്രാൻസാക്ഷന്റെ ഒരു ടൈം സ്റ്റാമ്പ് ആണ് അതു മാത്രമല്ല അത് x ൽ ആണ് എഴുതിയിരിക്കുന്നത് അതിന്റെ കൂടെ ആ ട്രാൻസാക്ഷൻ ആണ് വലുത് അപ്പോൾ ആ ഒരു ട്രാൻസാക്ഷന്റെ ടൈംസ്റ്റാമ്പ് ആണ് T എന്ന ട്രാൻസാക്ഷന്റെ ടൈം സ്റ്റാമ്പിനേക്കാളും വലുത് അതിന്റെ അർത്ഥം റൈറ്റ് എന്നത് റീഡിന് മുൻപ് നടന്നിട്ടില്ല എന്നതാണ് ഈ റീഡ് താമസിച്ചാണ് വന്നത് ആരോ എഴുതിയിട്ടും ഉണ്ട് മറ്റു ചില ട്രാൻസാക്ഷനുകൾ താമസിച്ച് എഴുതേണ്ടവ നേരത്തെ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴാണ് റീഡ് ട്രാൻസാക്ഷനു വേണ്ടി അപേക്ഷിക്കുന്നത് അപ്പോൾ ഇത് ശരിയല്ല കാരണം ഇത് ഇപ്പോൾ വായിക്കുവാൻ പോകുകയാണ് ഇത് ഇപ്പോൾ വായിക്കുകയാണെങ്കിൽ ഇത് വായിക്കുന്നത് നേരത്തെ ടൈം സ്റ്റാമ്പ് എഴുതിയത് ആണ് x ന്റെ wts ഇതിനെ കുറിച്ച് കൂടുതൽ പറയുവാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണം നോക്കാം മറ്റൊരു ട്രാൻസാക്ഷൻ T 1 ന്റെ ടൈം സ്റ്റാമ്പ് നേരത്തെ എഴുതിയതിന്റെ എടുക്കാം T എന്ന ട്രാൻസാക്ഷന്റെ ടൈംസ്റ്റാമ്പ് നേരത്തെ എഴുതിയ ട്രാൻസാക്ഷന്റെ ടൈംസ്റ്റാമ്പിനേക്കാൾ ചെറുതാണ് അപ്പോൾ അത് T 1 ന് ഏഴുതുവാൻ ഉള്ള അവസരം കിട്ടുന്നതിന് മുൻപു തന്നെ വായിച്ചു എന്നാണ് വരുക അപ്പോൾ ഇത് തെറ്റാണ് അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഓപ്പറേഷൻ അനുവദിക്കില്ല അപ്പോൾ ഈ ഒരു അപേക്ഷ നിരാകരിക്കപ്പെടുകയാണ് T അല്ലെങ്കിൽ T1 ലെ ഒന്ന് റോൾ ബാക്ക് ചെയ്യപ്പെടും കാരണം ഇതിനെ ക്രമത്തിലല്ല കൊടുത്തിരിക്കുന്നത് T യുടെ റീഡ് T1 ന്റെ റൈറ്റിനു മുൻപ് നടന്നിരിക്കണം ഇതാണ് ഇതിൽ മൊത്തമായി പറയുവാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം ഇങ്ങനെ ഒന്നു നടന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് അതിനെ അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല ആ അപേക്ഷ നിരാകരിക്കപ്പെടും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതു കാരണം ഈ ഒരു അപേക്ഷ മുന്നോട്ടു പോകില്ല അതേ സമയം ഇനി ട്രാൻസാക്ഷൻ T യുടെ ടൈംസ്റ്റാബ് x ന്റെ റൈറ്റ്സ്റ്റാമ്പിനെക്കാൾ വലുത് ആണെങ്കിൽ ഉദാഹരണത്തിൽ T 2 എന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകുന്നില്ല കാരണം T 2 ഈ X ൽ ആണ് എഴുതേണ്ടത് അത് എഴുതുന്നത് T s വായിക്കുന്നതിനു മുൻപ് ആണ് കാരണം T2 ന്റെ ടൈംസ്റ്റാമ്പ് T യുടെ ടൈം സ്റ്റാമ്പിനേക്കാൾ ചെറുതാകാം അപ്പോൾ ഇത് പ്രശ്നം ഉണ്ടാകുന്നില്ല ഈ ഒരു അപേക്ഷ അനുവദിക്കും അതിനർത്ഥം T യെ x നെ വായിക്കുവാൻ അനുവദിക്കും അതുപോലെ തന്നെ x ന്റെ റീഡ് ടൈംസ്റ്റാബിനെ അപ്ഡേറ്റ് ചെയ്യെണ്ടിയും വരും അപ്പോൾ x ന്റെ റീഡ് ടൈംസ്റ്റാമ്പിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം ഇതാണ് ഏറ്റവും വലിയ റീഡ് ടൈംസ്റ്റാമ്പ് അത് നേരത്തെ ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ T ഒരു ടൈം സ്റ്റാമ്പ് ആയിരിക്കാം അപ്പോൾ T യുടെ ടൈംസ്റ്റാമ്പ് റീഡിന്റെ ടൈംസ്റ്റാമ്പിനേക്കാൾ വലുതായിരിക്കും എന്നിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യും അല്ലെങ്കിൽ അത് പഴയതു പോലെ തന്നെ നിൽക്കും അതുകാരണം ഇതിനെ നമ്മൾ അനുവദിക്കും അതിനാൽ ഇതാണ് റീഡിന്റെ അപേക്ഷ ഇതാണ് ട്രാൻസാക്ഷൻ T റീഡിന് വേണ്ടി അപേക്ഷിച്ചാൽ സംഭവിക്കുന്നത് അടുത്ത കാര്യം എന്തെന്നാൽ ട്രാൻസാക്ഷൻ T x ന്റെ റൈറ്റ് നു വേണ്ടി അപേക്ഷിച്ചാൽ അത് ഒരു അപേക്ഷ മാത്രമായിരിക്കും T എന്ന ട്രാൻസാക്ഷന്റെ ടൈംസ്റ്റാമ്പ് x ന്റെ റീഡ് ടൈംസ്റ്റാബിനേക്കാൾ ചെറുത് ആണെന്നു കരുതുക ഉദാഹരണത്തിന് അത് ഒരു T1 എന്ന ടൈംസ്റ്റാബിന് തുല്യമാണ് എന്ന് കരുതുക അതിന്റെ അർത്ഥം നേരത്തെ കണ്ട അതേ പ്രശ്നം ഇവിടെ വരുന്നു എന്നാണ് T1 ന്റെ റീഡ്സ്റ്റാബ് നേരത്തെ വായിച്ചു കഴിഞ്ഞു T ക്ക് എഴുതുവാനുള്ള അവസരം കിട്ടുന്നതിനു മുൻപ് തന്നെ T1 അത് വായിക്കുവാൻ പാടില്ലായിക്കുന്നു കാരണം T ആണ് ആദ്യം വരേണ്ടത് T യുടെ ടൈംസ്റ്റാമ്പ് T 1 നേക്കാൾ ചെറുതാണ് അപ്പോൾ x നെ T1 റീഡു ചെയ്യുന്നതിനു മുൻപ് തന്നെ അതിനെ റൈറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും ഇത് തെറ്റായിട്ടു വരുന്നു ഇത് അനുവദിക്കുവാൻ സാധിക്കുകയില്ല ഈ ഒരു അപേക്ഷയും നിരാകരിക്കും ഈ റൈറ്റ് നിരാകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ T അല്ലെങ്കിൽ T1 ൽ ഏതെങ്കിലും ഒന്ന് റോൾ ബാക്ക് ചെയ്യും കാരണം ഇവിടെ റീഡിന്റെയും റൈറ്റിന്റെയും ഒരു സംഘർഷമുണ്ടാകുന്നു അത് ശരിയായ ക്രമത്തിൽ അല്ല പോയിരിക്കുന്നത് അതിനാൽ അത് നിരാകരിക്കുന്നു മുന്നോട്ട് പോകുന്നില്ല രണ്ടാമത്തെ കാര്യമെന്തെന്നാൽ T യുടെ ടൈംസ്റ്റാമ്പ് x ന്റെ റൈറ്റ് സ്റ്റാമ്പിനേക്കാൾ ചെറുതാണ് നമുക്ക് പറയുവാൻ സാധിക്കും ഇത് T2 വിന്റെ ടൈംസ്റ്റാമ്പ് എന്ന് ഇവിടെ വീണ്ടും വരുന്ന പ്രശ്നം എന്തെന്നാൽ T യെ T2 വിനേക്കാൾ മുൻപേ എഴുതണമായിരുന്നു കാരണം T യുടെ ടൈംസ്റ്റാമ്പ് T2 വിനേക്കാൾ ചെറുതാണ് അപ്പോൾ T യുടെ x നു വേണ്ടിയുള്ള റൈറ്റ് x നു വേണ്ടിയുള്ള T2 നുള്ള റൈറ്റിനു മുൻപേ നടന്നിരിക്കണം ഈ റൈറ്റിനെ നിരാകരിച്ചിരിക്കുകയാണ് ഇതെല്ലാം റൈറ്റ് ആണെങ്കിൽ ഇവിടെ റൈറ്റിന് സംഘർഷം ഉണ്ടാകും നേരത്തെ നമ്മൾ കണ്ടിരുന്നത് റീഡ് റൈറ്റിന്റെ സംഘർഷമായിരുന്നു ഇതിനെയും അപ്പോൾ നിരാകരിച്ചിരിക്കുകയാണ് അതിനു ശേഷം T അല്ലെങ്കിൽ T2 റോൾ ബാക്ക് ആകുകയാണ് ഈ ഒരു ഓപ്പറേഷനും മുന്നോട്ടു പോകുവാൻ സാധിക്കുകയില്ല അവസാനം T എന്ന ട്രാൻസാക്ഷൻ x ന്റെ റീഡ് ടൈം സ്റ്റാമ്പിനേക്കാൾ വലുതാണ് ട്രാൻസാക്ഷൻ T1 എന്ന് ഉദ്ദേശിക്കുന്നത് x ന്റെ റൈറ്റ് ടൈം സ്റ്റാമ്പിനേക്കാളും ഇതിന്റെ ടൈംസ്റ്റാമ്പ് വലുതാണ് എന്നാണ് അതിന്റെ അർത്ഥം അവിടെ പ്രശ്നം ഒന്നും ഉണ്ടാകുന്നില്ല നേരത്തെ വരേണ്ട റീഡുകൾ എല്ലാം നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു നേരത്തെ വരേണ്ട റൈറ്റുകൾ എല്ലാം നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു അപ്പോൾ ഇതിനെ അനുവദിക്കും റൈറ്റിന് അനുവാദം കൊടുക്കും നേരത്തെ ഉണ്ടായിരുന്ന കേസുപോലെ തന്നെ റൈറ്റ് ടൈംസ്റ്റാമ്പിനെ അപ്ഡേറ്റ് ചെയ്യണം x ന്റെ റൈറ്റ് ടൈം സ്റ്റാമ്പിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം ഈ റൈറ്റ് ടൈം സ്റ്റാമ്പിനെ നമ്മൾക്ക് T യിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം T യേക്കാൾ വലിയ ടൈംസ്റ്റാമ്പ് അപ്പോൾ വരുവാൻ പാടില്ല അപ്പോൾ എളുപ്പത്തിന് ഇതിനെ നമുക്ക് T യുടെ റൈറ്റ് സ്റ്റാമ്പ് ആയിട്ട് എടുക്കാം ഇതു രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് ഇനി T റീഡിനോ റൈറ്റിനോ വേണ്ടി അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും ട്രാൻസാക്ഷൻ പിന്നീട് വരുകയാണെങ്കിൽ അത് ശരിയായ ക്രമത്തിലാണ് അങ്ങനെയാണെങ്കിൽ അത് അനുവദിക്കും അല്ലെങ്കിൽ നിരാകരിക്കും ഇനി ഇതെല്ലാം ശരിയായി ഇനി നമുക്ക് ശരിയായി പോകുന്നതിനുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാം ഇത് എന്തു കൊണ്ടാണ് ശരിയാകുന്നത് ടൈംസ്റ്റാമ്പ് ഓർടറിങ്ങ് പ്രോട്ടോകോളിന്റെ പിഴ ഇല്ലായ്മയെ കുറിച്ച് നമുക്ക് നോക്കാം ഇത് കോൺഫ്ലിക്റ്റ് സീരിയലൈസിബിലിറ്റി ഉറപ്പു വരുത്തുന്നു അത് വളരെ ബുദ്ധിമുട്ട് ഉള്ള കാര്യമല്ല നമുക്ക് കാരണം അത് ഒരു തരത്തിലുമുള്ള സംഘർഷം ഉണ്ടാക്കുന്ന ഓപ്പറേഷനും അനുവദിക്കുന്നില്ല അപ്പോൾ ഈ മൊത്തം പ്രോട്ടോകോളിന്റെ ആശയം അതായത് എന്തുകൊണ്ടാണ് അത് പലതിനെയും നിരാകരിക്കുന്നത് എന്നുള്ളത് അതിന് കോൺഫ്ലിക്റ്റ്ന്റെ കാര്യങ്ങൾ ലംഘിക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ ഇവിടത്തെ ആശയം എന്തെന്നാൽ സംഘർഷം ഉണ്ടാക്കുന്ന ഓപ്പറേഷനുകളെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ശരിയായ ടൈംസ്റ്റാമ്പ് ഓർട്ടറിൽ ആണ് ഇനി അത് നോൺ ടൈംസ്റ്റാമ്പ് ഓർട്ടറിൽ ആണ് വരുന്നത് എങ്കിൽ അതിനെ നമ്മൾ നിരാകരിച്ചു കളയും അതാണ് ഇവിടത്തെ ആദ്യത്തെ കാര്യം മറ്റൊന്ന് എന്നത് ഇവിടെ ഡെഡ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം ആദ്യം തുടങ്ങുന്ന ട്രാൻസാക്ഷനിനാണ് പ്രാധാന്യം കൂടുതൽ ചെറിയ ടൈംസ്റ്റാമ്പ് ഉള്ളതിന് ആയിരിക്കും പ്രാധാന്യം കൂടുതൽ അപ്പോൾ ഇത് ഡെഡ്ലോക്ക്ഫ്രീയാണ് ഇവിടെ സ്റ്റാർവേഷൻ ഉണ്ടാകാം അതിനുള്ള കാരണം എന്തെന്നാൽ മറ്റ് ചെറിയ ടൈംസ്റ്റാമ്പ്കൾ തുടർന്ന് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ട്രാൻസാക്ഷന് ഒരുപാടു നേരം കാത്തിരിക്കേണ്ടിവരും അത് അതിനെ നിരാകരിച്ചു കൊണ്ടേയിരിക്കും അതും സ്റ്റാർവേഷന് കാരണമാകും പിന്നെ ഇത് ക്യാസ്കേടലസ് അല്ല അതിന്റെ അർത്ഥം ക്യാസ്കെഡിങ് റോൾബാക്ക് ഇവിടെ ഉണ്ടാകാം കാരണം ട്രാൻസാക്ഷൻ അബോർട്ട് ആകാം ഈ ഒരു ട്രാൻസാക്ഷനെ ആശ്രയിച്ചു നിൽക്കുന്ന മറ്റു ട്രാൻസാക്ഷനുകളും അതിന്റെ കൂടെ അബോർട്ട് ആകാം അപ്പോൾ ഇത് ക്യാസ്കേടലസ് അല്ല ഇത് വളരെ വളരെ ആകർഷകം ആണ് ഇത് റിക്കവറബിൾ അല്ല കാരണം അത് ഒരു പ്രത്യേക ഡേറ്റാ ടൈംസ്റ്റാമ്പിനെ വായിക്കുവാനും എഴുതുവാനും അനുവദിക്കുന്നു കാരണം ബാക്കിയുള്ള ട്രാൻസാക്ഷനുകൾ അതുവരെ എത്തിയിട്ടുണ്ടാകുകയില്ല ആ ഒരു ട്രാൻസാക്ഷനെ കമ്മിറ്റോ അബോർട്ടോ ചെയ്യും അപ്പോൾ ഇത് നോൺ റിക്കവറബിൾ ആണ് കാരണം പിന്നീട് നമ്മൾ കണ്ടെത്തും അതിനെ ചെയ്യുവാൻ പാടില്ലാ എന്ന് പക്ഷേ അതിനുള്ളിൽ ഇത് കമ്മിറ്റ് ആയിരിക്കും അതുകാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഇത് റിക്കവറബിൾ അല്ല ഇത് ഡെഡ്ലോക്ക് ഫ്രീ ആണ് അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് സീരീയലൈസസിബിലിറ്റിക്ക് ഉറപ്പ് തരുന്നുണ്ടെങ്കിലും ഇതിന് പ്രശ്നങ്ങൾ അതായത് സ്റ്റാർവേഷനും നോൺ റികവറബിലിറ്റിയും ഉണ്ടാകുന്നുണ്ട് ഇത് ക്യാസ്കേടിങ്ങും അല്ല ഇവിടെ ചില വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വേരിയന്റ്സ് ഈ 2 ഫെയ്സ് പ്രോട്ടോകോളിൽ ഉണ്ട് ചില വ്യത്യാസങ്ങൾ നമുക്ക് ഈ ബേസിക് ടൈംസ്റ്റാമ്പ് ഓർടറിങ്ങിൽ വരുത്തുവാൻ സാധിക്കും നമ്മൾക്ക് കമ്മിറ്റ് ഡിപ്പൻറ്റൻസി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നു നോക്കാം കമ്മിറ്റ് ഡിപ്പൻറ്റൻസിയുടെ ആശയം നോക്കാം ഷെഡ്യൂളുകളുടെ ട്രാൻസാക്ഷനുകൾ റിക്കവറബിൾ ആണ് എന്ന് ഉറപ്പു വരുത്തണം ഇനി കമ്മിറ്റ് ഡിപ്പൻറ്റൻസി എന്നു വച്ചാൽ ഇവിടെ ഇനി Ti Tj യിൽ നിന്നും വായികുകയാണ് എന്ന് കരുതുക അങ്ങനെ ആണെങ്കിൽ Tiക്ക് T J യുമായി ഒരു കമ്മിറ്റ് ഡിപ്പന്റൻസി ഉണ്ട് അപ്പോൾ ഇവിടെ Tj യെ ആശ്രയിച്ചിരിക്കുന്നു എന്നു വച്ചാൽ Ti Tj യിൽ നിന്നുമാണ് വായിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം Tj ഒരു മൂല്യം ഉണ്ടാക്കി അത് Ti വായിക്കുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ Ti ക്ക് Tj യുമായി ഒരു കമ്മിറ്റ് ഡിപ്പന്റൻസി ഉണ്ടാകുന്നു അതായത് Ti ക്ക് Tj കമ്മിറ്റ് ആകാതെ കമ്മിറ്റ് ആകുവാൻ സാധിക്കുകയില്ല അപ്പോൾ ഇതിന്റെ കമ്മിറ്റ് Tj യുടെ കമ്മിറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതാണ് കമ്മിറ്റ് ഡിപ്പന്ററൻസി ഇത് Ti Tj യെക്കാൾ മുൻപ് കമ്മിറ്റ് ആകില്ല എന്ന് ഉറപ്പു വരുത്തുന്നു അത് Tj ക്ക് മുൻപ് കമ്മിറ്റ് ആകുന്നില്ല കാരണം അത് Tj യുമായി ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ Tj കമ്മിറ്റ് ആകാതെ അതിന് കമ്മിറ്റ് ആകാൻ സാധിക്കില്ല അത് ഇവിടെ ട്രാൻസാക്ഷൻ റിക്കവറബിൾ ആക്കാൻ വേണ്ടി ആണ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും Ti വായിക്കുകയും കമ്മിറ്റ് ചെയ്യുകയും ചെയ്യും അതിനു ശേഷം Tj അബോർട്ട് ആകും ആ സമയം ആകുമ്പോഴേക്കും Ti കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും ഇത് തെറ്റ് ആണ് കാരണം Ti വായിച്ച മൂല്യം അത് വായിക്കാൻ പാടില്ലാത്തതായിരുന്നു അപ്പോൾ അതാണ് ഇവിടുത്തെ ആശയം ഇനി രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഈ കാര്യങ്ങളെ റിക്കവറബിളും കാസ്കേട്ലെസ്സും ആക്കാൻ വേണ്ടി ചില വ്യത്യാസങ്ങൾ വരുത്തണം എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എല്ലാ റൈറ്റുകളും അവസാനം ചെയ്യാൻ വേണ്ടി വയ്ക്കും എല്ലാ റൈറ്റ്കളയും അറ്റോമിക് ആയി അവസാനം പ്രവർത്തിക്കാൻ വെക്കുന്നു അറ്റോമികലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒന്നുകിൽ എല്ലാ റൈറ്റുകളും നടക്കും അല്ലെങ്കിൽ ഒരു റൈറ്റും നടക്കില്ല അത് അവസാനം ആണ് ചെയ്യുന്നത് ഇവിടെ അവസാനം എല്ലാ റൈറ്റുകളും നടന്നില്ലെങ്കിൽ ഒരു റൈറ്റും നടക്കത്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യം ഇവയെ വായിച്ചതിനു ശേഷം മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അത് സാധിച്ചില്ലെങ്കിൽ ട്രാൻസാക്ഷൻ അബോർട്ട് ആകും അങ്ങനെ സംഭവിച്ചാൽ അത് വീണ്ടും ഒരു പുതിയ ടൈംസ്റ്റാമ്പ് വെച്ച് തുടങ്ങും അതിൻറെ അർത്ഥം ഇതിന് ഒരു വലിയ ടൈംസ്റ്റാമ്പ് കിട്ടുകയാണ് അത് കമ്മിറ്റ് ഡിപെൻഡൻസി എന്നിവ തുടങ്ങും ടൈംസ്റ്റാമ്പിനെ കമ്മിറ്റ് ചെയ്യും കാരണം ഇത് ഒരു വലിയ ടൈം സ്റ്റാമ്പ് വെച്ചാണ് തുടങ്ങുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ട്രാൻസാക്ഷനുകൾക്ക് ഇതിനേക്കാൾ പ്രാധാന്യം കിട്ടും കാരണം ഇത് അബോർട്ട് ആയിപ്പോയി അതുകൊണ്ട് ഇത് ഇങ്ങനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കും ഇങ്ങനെയാണ് ഒരു രീതിയിൽ ചെയ്യുന്നത് അതിനെ ഞാൻ ഇവിടെ എഴുതുകയാണ് അപ്പോൾ ട്രാൻസാക്ഷൻ അബോർട്ട് ആവുകയാണെങ്കിൽ അത് വീണ്ടും പുതിയ ടൈംസ്റ്റാമ്പ് വെച്ച് തുടങ്ങും ഇനി അടുത്ത രീതി എന്നത് ലോക്കുകൾ ഉപയോഗിക്കുക എന്നതാണ് പക്ഷേ അതിനെ ഉപയോഗിക്കുന്നത് ടൈംസ്റ്റാമ്പ് ഓർഡർ പ്രോട്ടോകോളിൻറെ ഫിലോസഫിയ്ക്ക് വിരുദ്ധമാണ് കാരണം അത് ലോക്ക് ഫ്രീ ആവേണ്ടതാണ് അപ്പോൾ ഇതിനെ റിക്കവറബിളും ക്യാസ്കേട്ലസ്സും ആക്കാൻ വേണ്ടി നമ്മൾ ലോക്കുകൾ ഉപയോഗിക്കുന്നു അപ്പോൾ ലോക്കിന്റെ പ്രോട്ടോകോൾ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് ഒരു നല്ല പരിഹാരം അല്ല ഇനി ഇതിന്റെ മറ്റൊരു വെർഷൻ ആയിട്ട് നമ്മുടെ കൈയിൽ ഉള്ളത് സ്ട്രിക്ട് ടൈം സ്റ്റാമ്പ് ഓർഡറുങ്ങ് പ്രോട്ടോകോൾ ആണ് അത് പ്രോട്ടോകോളിനെ സ്ട്രീക്റ്റ് ആക്കുവാൻ ശ്രമിക്കുന്നു 2 PL ന്റെ സ്ട്രീക്റ്റ് വെർഷൻ പോലെ അത് ഡേറ്റ കമ്മിറ്റ് ആകുന്നതുവരെ കാത്തിരിക്കുന്നു എഴുതുന്നതിനും വായിക്കുന്നതിനും മുൻപു തന്നെ അപ്പോൾ ഇത് കമ്മിറ്റ് ആകാത്ത ഒരു ഡേറ്റയേയും വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്നില്ല അപ്പോൾ ഇത് കമ്മിറ്റ് ആയതിനെ മാത്രമേ വായിക്കുന്നുള്ളൂ അത് ഇവിടെ സ്ട്രിക്റ്റ് ഷെഡ്യൂളുകളെ അനുകരിക്കുകയാണ് അപ്പോൾ കമ്മിറ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷനെ മാത്രമേ ഇത് വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്നുള്ളൂ അതിൻറെ അർത്ഥം എല്ലാം ശരിയായാൽ മാത്രമേ ഇത് വായിക്കുകയോ എഴുതുകയോ ചെയ്യുന്നുള്ളൂ എന്നാണ് ഇത് എല്ലാം സീരിയലാണ് അപ്പോൾ ഇത് ടൈം സ്റ്റാബ് ഓർഡറിങ്ങ് പ്രോട്ടോകോളിനെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ ഒന്നുകൂടി ഉണ്ട് തോമസ്സസ്സ് റൈറ്റ് റ്യൂൾ Thomas's write rule ഈ ഒരു നിയമം ഇതിനെ കുറച്ചുകൂടി കൺകറന്റ് ആക്കുന്നു ബെസിക് ടൈംസ്റ്റാബ് പ്രോട്ടോകോൾ മറ്റ് അനുവദിക്കാതെയുള്ള കൂടുതൽ ഷെഡ്യൂളുകളെ അനുവദിക്കുന്നു നമ്മൾ കോൺഫിളിറ്റ് സീരിയസിബിലിറ്റിയിലും conflict serializability വ്യൂ സീരിയ സിസിലിറ്റിയിലും എന്താണ് ചെയ്തത് എന്ന് ഓർക്കുക നമ്മൾ അവിടെ ബ്ലൈൻഡ് റൈറ്റിനെ കൈകാര്യം ചെയ്തിട്ടില്ല ഇനി ഒപ്പ്സല്യൂട്ട് റൈറ്റ് അത് ബ്ലൈൻഡ് റൈറ്റ് അല്ല ഒപ്പ്സല്യൂട്ട് റൈറ്റിനെ അവഗണിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് റൈറ്റ് കേസിന് എന്തു സംഭവിക്കുന്നു എന്നുളളത് ഓർക്കുക ഇവിടെ ട്രാൻസാക്ഷൻ എഴുതണം എന്നുണ്ട് അതിന്റെ ടൈംസ്റ്റാമ്പ് റീഡ് ടൈംസ്റ്റാസിനേക്കാൾ ചെറുതാണ് എന്ന് കരുതുക അതായത് ട്രാൻസാക്ഷൻ T2 എന്നത് ഇവിടെ ഉണ്ട് പിന്നെ ബേസിക് ടൈംസ്റ്റാമ്പ് ഓർടറിങ്ങ് പ്രോട്ടോകോളിൽ ഇതിനെ നിരാകരിച്ചിരിക്കുന്നു കാരണം ഇവിടെ റൈറ്റുകൾ എല്ലാം ക്രമത്തിൽ അല്ല വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് തോമസ്സ് റൈറ്റ് റൂളിനെ അനുവദിക്കും കാരണം ഇവിടെയുള്ള ആശയം എന്തെന്നാൽ T എഴുതുവാൻ ശ്രമിക്കുന്നത് ഒപ്പ്സല്യൂട്ട് മൂല്യം ആണ് അത് എന്തു കൊണ്ടാണ് ഒപ്പ്സല്യൂട്ട് മൂല്യം ആയത് കാരണം നിങ്ങൾക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാം T ഇവിടെ x ന്റെ മൂല്യം എഴുതുമായിരുന്നു ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ 2 Tക്കു ശേഷം വരുമായിരുന്നു കാരണം അതിന്റെ ടൈംസ്റ്റാമ്പ് കൂടുതൽ ആണ് എന്നിട്ട് x നെ എഴുതുമായിരുന്നു അങ്ങനെ വരുമ്പോൾ T എഴുതിയതിൻറെ മുകളിലായി T 2 എഴുതും അപ്പോൾ ഇത് ഒപ്പ്സല്യൂട്ട് ആണ് ഇനി ഒപ്പ്സല്യൂട്ട് റൈറ്റ് ഇല്ലെങ്കിലും പ്രശ്നം ആകുന്നില്ല അതിനെ നമ്മൾ അവഗണിച്ചാൽ മതി അപ്പോൾ ഒരു ഒപ്പ്സല്യൂട്ട് റൈറ്റും ഉണ്ട് അതിന്റെ കൂടെ അതിനെ എഴുതിയില്ലെങ്കിലും നമുക്ക് അതിനെ വെറുതെ അവഗണിച്ചു കളയാം അതിൽ ഒപ്പ്സല്യൂട്ടിൻറെ നഷ്ടം നമുക്ക് അവഗണിച്ചുകളയാം കാരണം അത് എന്തായാലും ഒപ്പ്സല്യൂട്ട് ആണ് അതിനുശേഷം ഇതിനെ അനുവദിക്കാം പിന്നെ പ്രോട്ടോകോൾ മുന്നോട്ടു പോകും ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നു വച്ചാൽ റൈറ്റ് റൂളിന്റെ 3 നിബന്ധനകളിൽ 2 എണ്ണം മുന്നോട്ട് പോകില്ല ഒരെണ്ണം മുന്നോട്ടു പോകും നടുക്കുള്ള നിബന്ധനയും മുന്നോട്ട് പോകും കാരണം അത് ഒപ്പ്സല്യൂട്ട് റൈറ്റാണ് ഒപ്പ്സല്യൂട്ട് റൈറ്റിനെ ഇവിടെ അവഗണിക്കുന്നു അപ്പോൾ ഇത് കൺകറൻസി കൂട്ടുന്നു കാരണം ഇത് കൂടുതൽ റൈറ്റിനെ മുന്നോട്ട് കൊണ്ടു പോകുന്നു ഇത് കൂടുതൽ ട്രാൻസാക്ഷനുകളെ വിജയകരമായി പൂർത്തിയാക്കുവാൻ സഹായിക്കുന്നു ഇത് റിക്കവറബിലിറ്റിയും കൂട്ടുന്നു കാരണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുവച്ചാൽ ട്രാൻസാക്ഷൻ വെറുതെ അബോർട്ട് ആകുന്നില്ല അതിന് മുന്നോട്ടു പൊകുവാൻ സാധിക്കുന്നു അത് റിക്കവറബിലിറ്റി കൂട്ടുകയും ചെയ്യുന്നു അപ്പോർ ഇത് ചില വ്യൂ സീരിയലൈസബിൾ കാര്യങ്ങളെ അനുവദിക്കുന്നു അത് ബേസിക് ടൈം സ്റ്റാമ്പ്കളിൽ അനുവദിക്കാറില്ല കാരണം ഇത് ഒപ്പ്സല്യൂട്ട് നിയമം ആണ് അത് കോൺഫ്ലിക്റ്റ് വ്യൂ സീരിയലൈസബിൾ കാര്യങ്ങളും എന്നിവ തമ്മിലുള്ള വ്യത്യാസമാണ് ദാ ഇവിടെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ കാണിക്കുന്നു ഉദാഹരണത്തിന് r1 w2 w1 w3 എന്നിവ എടുക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാം w2 എന്നത് ഒപ്പ്സല്യൂട്ട് റൈറ്റ് ആണ് അതിനെ തോമസസ് റൈറ്റ് നിയമത്തിൽ ആണ് അനുവദിക്കുന്നത് മറ്റൊന്നിലും ഇല്ല ഈ പ്രോർട്ടാകോൾ പിന്നെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇതാണ് ടൈംസ്റ്റാമ്പ് ഓർട്ടറിങ്ങ് പ്രോട്ടോകോളിൻറെ അവസാനം